നമ്മൾ എട്ട് രാജ്ഞികളുടെ പ്രശ്നം നോക്കുകയായിരുന്നു കൂടാതെ നമ്മുടെ പരിഹാരം ബോർഡിനെ പ്രതിനിധീകരിക്കുന്നതും ഏതൊക്കെ ചതുരങ്ങളാണ് ആക്രമിക്കപ്പെടുന്നതെന്നും രാജ്ഞികളെ ഓരോന്നായി സ്ഥാപിക്കുന്നതും ഉൾപ്പെടുന്നു ഈ പരിഹാരത്തിന്റെ ഒരു പ്രത്യേകതയെന്താണെന്ന് വെച്ചാൽ അവ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ബോർഡുകൾ ഫംഗ്ഷനുകളിലൂടെ കടത്തിവിടണം അല്ലെങ്കിൽ അവയുടെ വലുപ്പം മാറ്റണം കൂടാതെ എനിക്ക് അവയ്ക്ക് പ്രാരംഭവിലകൾ നൽകേണ്ടതുണ്ട് അങ്ങിനെ തുടരണം കാരണം ഓരോ ഫംഗ്ഷനിലും ബോർഡ് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എല്ലായിടത്തും ബോർഡ് കടത്തിവിടുന്നത് നമുക്ക് ഒഴിവാക്കാനാകുമോ എന്നതാണ് നിലവിലുള്ള ചോദ്യം അതായത് ഈ ബോർഡ് വ്യക്തമായി അയച്ചുകൊടുക്കുന്നത് നമുക്ക് ഒഴിവാക്കാനാകുമോ അല്ലെങ്കിൽ ബോർഡിന്റെ ഒരു ഗ്ലോബൽ പകർപ്പ് നമുക്ക് ലഭ്യമാക്കാമോ എല്ലാ ഫംഗ്ഷനുകൾക്കും അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും അത് ഈ ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്നത് സംരക്ഷിക്കും അതുകൊണ്ട് ഇത് നമ്മെ സ്കോപ്പ് എന്ന ആശയത്തിലേക്ക് കൊണ്ടുവരുന്നു വായിക്കുവാനും മാറ്റം വരുത്തുവാനും സാധ്യമാകുന്ന കോഡിന്റെ ഒരു ഭാഗമാണ് പൈത്തണിൽ ഒരു പേരിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് സ്വതവേ പൈത്തണിലെ സ്കോപ്പ് ഒരു ഫംഗ്ഷന് പ്രാദേശികമാണ് ഒരു ഫംഗ്ഷനകത്ത് ഒരു പേര് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതേ പേര് ഫംഗ്ഷന് പുറത്ത് ഉപയോഗിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി എന്നാൽ ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മൾ ഒരു പേര് ഫംഗ്ഷനകത്ത് വെച്ച് മാറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ പ്രത്യേക കോഡ് നോക്കാം x ന്റെ വില സ്വീകരിച്ചുകൊണ്ട് അതിനെ y എന്ന പേരിൽ സൂക്ഷിച്ച് പ്രിന്റ് ചെയ്യുന്ന f എന്ന ഒരു ഫംഗ്ഷൻ നമുക്കുണ്ട് ഇപ്പോഴുള്ള ചോദ്യമിതാണ് എന്താണ് ഈ x നല്ലത് ഒരു x ഇവിടെയുണ്ട് അതുകൊണ്ട് ഫംഗ്ഷനുള്ളിലെ ഈ x ഫംഗ്ഷന് പുറത്തുള്ള x നെ ശരിയായി പ്രതിഫലിപ്പിക്കുമോ ഇല്ലയോ അതുകൊണ്ട് ആ ഫംഗ്ഷനെ നമ്മൾ കാണുന്നു ആ കോഡ് കൃത്യമായുള്ള f1 py എന്ന ഫയൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അതായത് പുറത്തുനിന്ന് ഒരു x നെ റീഡ് ചെയ്ത് അത് പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന fഎന്ന ഫംഗ്ഷൻ നമുക്കുണ്ട് നിങ്ങൾ ഇത് റൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വാസ്തവത്തിൽ ഇത് 7 എന്ന വില പ്രദർശിപ്പിക്കുന്നു അതുകൊണ്ട് y ക്ക് 7 എന്ന വില ലഭിക്കുന്നു കാരണം പുറത്ത് x ന്റെ വില 7 ആണ് കൂടാതെ x എന്നത് f ന്റെ നിന്ന് സ്വയം ഉത്ഭവിക്കുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ് അതായത് ഇത് പ്രവർത്തിക്കുന്നു നിങ്ങളിപ്പോൾ ഇത് ചെയ്താൽ എന്ത് ചെയ്യും കൂടാതെ y ന്റെ വില പ്രദർശിപ്പിച്ചതിന് ശേഷം f നകത്ത് x 22 ആയി അത് സെറ്റ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിയാൽ ഇത് സമതുല്യമായ ഫംഗ്ഷനാണ് ഇവിടെ സ്ക്രീനിന്റെ മധ്യഭാഗത്ത് f2 py കോഡുണ്ട് കൂടുതലുള്ള അസൈൻമെന്റായ x 22 അതിനകത്തുണ്ട് എന്നതാണ് f1 py യുമായി ബന്ധപ്പെട്ടുള്ള ഒരോയൊരു വ്യത്യാസം നിങ്ങളിപ്പോൾ f2 py റൺ ചെയ്യാൻ ശ്രമിച്ചാൽ ആദ്യത്തെ അസൈൻമെന്റായ y x എന്നത് പ്രാദേശികമായി ബന്ധമില്ലാത്ത ഒരു പേര് നമുക്ക് നൽകുന്നു കൂടാതെ f നുള്ളിൽ ഈ സ്ഥാനത്ത് ലഭ്യമായ x ഇല്ല എന്നും പറയുന്ന ഒരു പിശക് സന്ദേശം നമുക്കത് നൽകുന്നു എന്തായാലും f നകത്ത് x 22 എന്ന് അസൈൻ ചെയ്യുന്നത് x ന്റെ അവസ്ഥ മാറ്റുന്നു പുറത്തുള്ള x നെ നോക്കാൻ അത് തയ്യാറല്ല അകത്ത് ഒരു x ഉണ്ടെന്ന് അത് നിർബന്ധിക്കും ഇത് ഒരു എറർ മെസേജ് നൽകുന്നു അതുകൊണ്ട് f നകത്ത് x കാണുന്നില്ലെങ്കിൽ അവസാനത്തെ ഫംഗ്ഷനിൽ ഗ്ലോബലായ ഒരു x ന് വേണ്ടി നോക്കുവാൻ പൈത്തൺ ആഗ്രഹിക്കുന്നു എങ്കിലും f നകത്ത് x പുതുക്കുകയാണെങ്കിൽ അത് ഒരു പ്രാദേശികമായ പേരായി മാറുകയും പിന്നെ ഒരു എറർ സന്ദേശം നൻകുകയും ചെയ്യുന്നു അതുകൊണ്ട് കർശനമായി പറഞ്ഞാൽ ഇത് മാറ്റമില്ലാത്ത വിലകൾക്ക് മാത്രമേ ബാധകമാകുകയുള്ളൂ നമ്മൾ ഈ ഫംഗ്ഷൻ ഇനിപ്പറയുന്ന രീതിയിൽ മാറ്റുകയാണെങ്കിൽ നമ്മൾ x ഒരു പൂർണ്ണസംഖ്യയല്ലാതാക്കി മാറ്റി എന്നാൽ ഉദാഹരണത്തിന് ഒരു ലിസ്റ്റിലെ പൂജ്യം സ്ഥാനത്തുള്ള ഘടകത്തെ തെരെഞ്ഞെടുക്കുവാനായി നമ്മൾ y യോട് ആവശ്യപ്പെടുന്നു കൂടാതെ പിന്നീട് f നകത്ത് നമ്മൾ x ന്റെ പൂജ്യം സ്ഥാനത്തുള്ള ഘടകത്തെ 22 ആക്കി മാറ്റുന്നു ഇപ്പോൾ നമ്മൾ x നെ ഒരു പൂർണ്ണസംഖ്യയിൽ നിന്ന് ഒരു ലിസ്റ്റാക്കി മാറ്റിയ ഈ ഫംഗ്ഷൻ നമുക്കുണ്ട് കൂടാതെ അതിന് ശേഷം നമ്മൾ അത് y യിലേക്ക് നൽകാൻ ശ്രമിക്കുന്നു എന്നാൽ ഫംഗ്ഷനകത്ത് വെച്ച് നമ്മൾ ആ ലിസ്റ്റ് പുതുക്കുന്നു അതിന് ശേഷം നിങ്ങൾ അത് റൺ ചെയ്താൽ അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അത് 7 എന്ന വില പ്രദർശിപ്പിക്കുന്നു അതായത് അത് പ്രവർത്തിക്കുന്നു നമുക്ക് ഒരു മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ഒരു വിലയുണ്ടെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ f നകത്ത് വെച്ച് അതിനെ മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ് മാത്രമല്ല ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന വിലകളെ പോയിന്റ് ചെയ്യുന്ന ആഗോള വിലകളെ ഫംഗ്ഷനകത്ത് വെച്ച് പുതുക്കുവാൻ സാധിക്കും വാസ്തവത്തിൽ ഇതിന്റെ അർത്ഥം നമ്മൾ പ്രശ്നം പരിഹരിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു ബോർഡിന്റെ ഉള്ളിൽ എട്ട് രാജ്ഞികളുമായി കടന്നുപോകുന്നത് എങ്ങനെ ഒഴിവാക്കാമെന്നതിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല ബോർഡ് ഒരു ഡിക്ഷ്ണറി ആയതിനാൽ അത് ഒരു മാറ്റം വരുത്താവുന്ന വിലയാണ് കൂടാതെ വാസ്തവത്തിൽ നമുക്ക് എട്ട് രാജ്ഞികളെ എഴുതാൻ സാധിക്കും അങ്ങനെ ബോർഡ് ചുറ്റി കടന്നുപോകുന്നത് നമ്മൾ അവഗണിക്കും ബോർഡ് നിലകൊള്ളുന്നില്ല എന്നും നന്നായി പ്രവർത്തിക്കുന്നു എന്നും ചെയ്യുവാൻ വേണ്ടി നമ്മൾ എല്ലാ നിർവചനങ്ങളും മാറ്റുന്നു എല്ലാ ഫംഗ്ഷനുകളിൽ നിന്നും ബോർഡിനെ വെറുതെ നീക്കം ചെയ്തുകൊണ്ട് മുമ്പത്തെ കോഡ് നമ്മൾ മാറ്റി എഴുതിയിരിക്കുന്നു അതായത് നേരത്തെ എടുത്ത ബോർഡ് പ്രാരംഭീകരിക്കുകയും n പ്രിന്റ് ബോർഡ് ഇപ്പോൾ ആർഗ്യുമെന്റുകൾ സ്വീകരിക്കുന്നതേയില്ല കൂടാതെ നിങ്ങൾക്ക് എല്ലായിടങ്ങളിലും കാണാൻ സാധിക്കുന്ന ഈ ആഗോള ബോർഡ് വിലയെ അവയെല്ലാം പരാമർശിക്കുന്നു അതായത് ഫംഗ്ഷനകത്ത് വെച്ച് പരാമർശിക്കുന്ന ഈ ആഗോള ബോർഡ് വില നമുക്കിവിടെയുണ്ട് മാത്രമല്ല അതിനെ അയക്കുന്നില്ല എന്നതിൽ ഒരു കാര്യവുമില്ല കാരണം ഇത് ഒരു മാറ്റം ചെയ്യപ്പെടാവുന്ന വിലയാണ് അതുകൊണ്ട് ഈ ശൂന്യമായ ഡിക്ഷ്ണറിക്ക് പുറത്ത് നിർവ്വചിക്കപ്പെട്ട വിലയ്ക്ക് വേണ്ടി അത് അന്വേഷിക്കുവാൻ പോകുന്നു കൂടാതെ രാജ്ഞിയെ സ്ഥാപിക്കുക അല്ലെങ്കിൽ രാജ്ഞിയെ പഴയ പടിയാക്കുക അല്ലെങ്കിൽ രാജ്ഞിയെ ചേർക്കുക തുടങ്ങിയ പോലെയുള്ള എല്ലാ ഫംഗ്ഷനുകളും അവയുടെ പ്രസക്തമായ പരാമീറ്ററുകൾ എടുത്ത് ബോർഡിന്റെ ആഗോള വിലയെ പരോക്ഷമായി പരാമർശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ ആഗോള പതിപ്പ് റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൃത്യമായി ഒരേ ഔട്ട്പുട്ട് ലഭിക്കുന്നു അതായത് ബോർഡിനെ ചുറ്റിലും കടത്തിവിടാതെ എട്ട് രാജ്ഞികളുടെ പ്രശ്നത്തെ പരിഹരിക്കുവാൻ വേണ്ടിയുള്ള ഉദ്ദേശ്യത്തെപ്പറ്റി നമ്മൾ പറഞ്ഞത് പോലെ നമുക്കാവശ്യമുള്ളതുപോലെ ഒരു ഫംഗ്ഷനകത്ത് വെച്ച് പുതുക്കാവുന്നതായിട്ടാണ് മാറ്റം വരുത്താവുന്ന ആഗോളമായ പേരുകളെ പൈത്തൺ പരിഗണിക്കാറുള്ളത് എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ യഥാർത്ഥത്തിൽ നമുക്കൊരു ഗ്ലോബലായ പൂർണ്ണസംഖ്യ വേണമെങ്കിൽ എന്തു ചെയ്യും ഗ്ലോബലായ പൂർണ്ണസംഖ്യ എന്ത് കൊണ്ട് നിങ്ങൾക്ക് വേണം നല്ലത് ഉദാഹരണത്തിന് ഒരു ഫംഗ്ഷൻ എത്ര പ്രാവശ്യം വിളിക്കപ്പെട്ടു എന്നതിന്റെ എണ്ണം വേണമെന്ന് സങ്കല്പിക്കുക അതുകൊണ്ട് ഓരോ പ്രാവശ്യം ആ ഫംഗ്ഷൻ വിളിക്കപ്പെടുമ്പോഴും ആ പൂർണ്ണസംഖ്യയെ നമ്മൾ ഈ ഫംഗ്ഷനകത്ത് വെച്ച് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ആ പൂർണ്ണസംഖ്യയ്ക്ക് ആ ഫംഗ്ഷന്റെ ഒരു പ്രാദേശിക നാമമാകുവാൻ സാധിക്കില്ല കാരണം ആ പ്രാദേശിക വില ആ ഫംഗ്ഷനകത്ത് വെച്ച് നശിപ്പിക്കപ്പെടുന്നു അത് നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു അതായത് ഫംഗ്ഷന് പുറത്ത് നിലനില്ക്കുന്ന ഒരു വിലയായിരിക്കണമത് എന്നാൽ ഒരു പൂർണ്ണസംഖ്യയായതിനാൽ അതൊരു മാറ്റം വരുത്താൻ പറ്റാത്ത വിലയാണ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഫംഗ്ഷനകത്ത് വെച്ച് പുതുക്കുവാൻ ശ്രമിക്കുന്നു അത് ഒരു പ്രാദേശിക വിലയായി അതിനെ പരിഗണിക്കും അതുകൊണ്ട് നമ്മൾ ഇതെങ്ങിനെ മറികടക്കും ഗ്ലോബൽ എന്ന് പേരുള്ള ഡിക്ലറേഷൻ പൈത്തണിലുണ്ട് പ്രാദേശിക മൂല്യമായി എടുക്കരുതെന്നും ആഗോളമായി പരാമർശിക്കണമെന്നും അത് പറയുന്നു f ന്റെ പഴയ നിർവ്വചനം നമ്മൾ മാറ്റിയാൽ അതായത് നമ്മൾ global x എന്ന ഈ ഒരു പ്രത്യേക ടാഗ് കൂട്ടിച്ചർത്താൽ ഈ x ഉം ഈ x ഉം രണ്ടും പരാമർശിക്കുന്നത് പുറത്തുള്ള x നെയാണ് പൈത്തണോട് പറയുന്ന രീതിയാണിത് ഒരു പുതിയ പ്രാദേശിക നാമം x സൃഷ്ടിച്ചുകൊണ്ട് x 22 എന്നത് ആശയക്കുഴപ്പമുണ്ടാക്കരുത് f നകത്ത് പരാമർശിക്കപ്പെടുന്ന എല്ലാ x കളും യഥാർത്ഥത്തിൽ പുറത്തുള്ള x ന് തുല്യമാണ് മാത്രമല്ല ഗ്ലോബൽ മൂല്യങ്ങളായി പരിഗണിക്കപ്പെടണം മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ഒരു വിലയെ ഒരു പൈത്തൺ പ്രോഗ്രമിൽ ഗ്ലോബലായി സ്വീകരിക്കപ്പെടുവാനായി നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു മാർഗ്ഗം ഇതാണ് അതുകൊണ്ട് ആ ഗ്ലോബൽ കോഡ് ഇവിടെയുണ്ട് നമുക്ക് global x ഉണ്ട് മാത്രമല്ല ഉള്ളിലുള്ള x 22 യഥാർത്ഥത്തിൽ പുറത്തുള്ള x നെ ബാധിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുക അതുകൊണ്ട് പ്രധാന പ്രോഗ്രാമിന്റെ ചുവടെ print x എന്ന് നമുക്കുണ്ട് f നെ വിളിക്കുന്നതിന് മുമ്പ് x ന്റെ വില 7 ആയിരുന്നു എന്നാൽ f നകത്ത് x നെ 22 ആയി സെറ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ print സ്റ്റേറ്റ്മെന്റ് നമുക്ക് 22 നൽകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നു ഈ സ്റ്റേറ്റ്മെന്റ് ആദ്യം 7 എന്ന് പ്രിന്റ് ചെയ്യണം print y യിൽ നിന്ന് അത് 7 എന്ന് പ്രിന്റ് ചെയ്യണം അതിന് ശേഷം ഈ print x ൽ നിന്ന് 22 എന്ന് പ്രിന്റ് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ഇത് റൺ ചെയ്യുകയാണെങ്കി￼ൽ തീർച്ചയായും ഇതാണ് നമ്മൾ ശരിയായി കാണുന്നത് നമുക്ക് രണ്ട് വരികളുണ്ട് ആദ്യത്തെ 7 വരുന്നത് print y യിൽ നിന്നും രണ്ടമത്തെ വരിയിലെ 22 വരുന്നത് പുറത്തുള്ള print x ൽ നിന്നുമാണ് നമ്മൾ ലോക്കൽ സ്കോപ്പ് എന്ന വിഷയത്തിൽ ആയിരിക്കുമ്പോൾ ഫംഗ്ഷനുള്ളിൽ ഫംഗ്ഷനുകൾ നിർവ്വചിക്കുവാൻ പൈത്തൺ നമ്മെ അനുവദിക്കുന്നു അതായത് ഇവിടെ ഉദാഹരണത്തിന് g h എന്നീ ഫംഗ്ഷനുകളെ ഫംഗ്ഷൻ f നിർവ്വചിച്ചിരിക്കുന്നു g തിരികെ നൽകുന്നത് ഒരു 1 ആണ് h തിരികെ നൽകുന്നത് b യുടെ രണ്ടിരട്ടിയാണ് ഉദാഹരണത്തിന് x ന്റെ വില വെറുതെ സെറ്റ് ചെയ്യുന്നതിന് പകരം g h എന്ന് വിളിച്ചുകൊണ്ട് നമുക്കിപ്പോൾ y പുതുക്കുവാൻ സാധിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷനുകൾ g ഉം h ഉം f ന് മാത്രമേ ദൃശ്യമാകൂ എന്നതാണ് അവ നിർവ്വചിക്കപ്പെട്ടിട്ടുള്ളത് f ന്റെ സ്കോപ്പിലാണ് അതായത് അവ f നകത്താണ് അതിനാൽ അവ പുറത്ത് ദൃശ്യമാകില്ല അതുകൊണ്ട് പുറത്ത് നിന്ന് ഈ ഒരു സ്ഥാനത്ത് വെച്ച് ഞാൻ g എന്ന് ചോദിച്ചാൽ ഇത് ഒരു പിശകായിരിക്കും കാരണം g എന്ന പേരിൽ ഒന്നും നിർവ്വചിക്കപ്പെട്ടിട്ടില്ല എന്ന് അത് പറയും ഇത് പ്രയോജനകരമാണ് കാരണം f ന് പ്രത്യേകമായ ഒരു പ്രവൃത്തി നിർവ്വഹിക്കുവാനുള്ള ലോക്കൽ ഫംഗ്ഷനുകൾ ഇപ്പോൾ നിങ്ങൾക്ക് നിർവ്വചിക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ അത് മറ്റെല്ലാവർക്കും തുറന്നു കാണാൻ സാധിക്കുന്ന ഒരു ഫംഗ്ഷനായിരിക്കരുത് മാത്രമല്ല ഇതൊരു സാധ്യതയാണ് നമ്മൾ x ന് വേണ്ടി g അല്ലെങ്കിൽ h നകത്ത് നോക്കുകയാണെങ്കിൽ ഇതേ നിയമങ്ങൾ ബാധകമാണ് അതായത് നമ്മൾ ഒരു x നെ ഇവിടെ നോക്കുകയാണെങ്കിൽ അത് ആദ്യം fൽ നോക്കുവാൻ ശ്രമിക്കും അത് അവിടെയില്ലെങ്കിൽ അത് പുറത്ത് അന്വേഷിച്ചുകൊണ്ട് തുടരും അതുകൊണ്ട് ഒന്നുകിൽ നമ്മൾ അത് ഗ്ലോബലായി പ്രഖ്യാപിക്കും ഈ സാഹചര്യത്തിൽ നമുക്ക് g യിൽ അല്ലെങ്കിൽ h ൽ വെച്ച് അതിനെ പുതുക്കുവാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ അത് മുമ്പത്തെ അതേ നിയമം ഉപയോഗിക്കും നമ്മൾ മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ഒരു വിലയെ പുതുക്കുന്നില്ലെങ്കിൽ അത് പുറത്ത് അന്വേഷിക്കും കൂടാതെ അത് മാറ്റം വരുത്താവുന്ന വിലയാണെങ്കിൽ അത് അകത്ത് നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ നമ്മളെ അനുവദിക്കും ഇപ്പോൾ കൂടുതൽ പരിഷ്ക്കരണങ്ങളുണ്ട് non local എന്ന പേരുള്ള ഒരു ഇടയിലുള്ള സ്കോപ്പ് പൈത്തണിലുണ്ട് g യിലും h ലും f നകത്ത് വിലയെ പരാമർശിക്കുക എന്ന അത് പറയുന്നു എന്നാൽ f പുറത്തുള്ള വിലയെയല്ല ഇതൊരു സാങ്കേതികത്വമാണ് മാത്രമല്ല നമുക്കത് ആവശ്യമുണ്ടെങ്കിൽ അത് വളരെ പ്രസക്തമാകില്ല നമ്മൾ അതിലേക്ക് തിരിച്ചുവരും എന്നാലിപ്പോൾ non local ഡിക്ലറേഷനുകളെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ കണ്ടെത്തണമെങ്കിൽ ദയവ് ചെയ്ത് പൈത്തൺ ഡോക്യുമെന്റേഷൻ കാണുക എന്നാൽ ഗ്ലോബലാണ് പ്രധാനപ്പെട്ടത് മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ഒരു വിലയെ പുറത്ത് നിന്ന് ഒരു ഫംഗ്ഷനിലേക്ക് മാറ്റുവാൻ ഗ്ലോബൽ നമ്മെ അനുവദിക്കുന്നു കൂടാതെ ഫംഗ്ഷനകത്ത് വെച്ച് പുതുക്കാവുന്ന വിധത്തിലാക്കുവാനും അനുവദിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ നമ്മളെന്താണ് മനസ്സിലാക്കിയതെന്ന് വെച്ചാൽ ഫംഗ്ഷനുകൾക്കകത്ത് വെച്ചാണ് പൈത്തൺ നാമങ്ങൾ അന്വേഷിക്കുന്നത് നമ്മൾ മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത ഒരു വില പുതുക്കുകയാണെങ്കിൽ അത് ഒരു ലോക്കൽ പകർപ്പ് സൃഷ്ടിക്കുന്നു അതുകൊണ്ട് മാറ്റം വരുത്തുവാൻ സാധിക്കാത്ത വിലകളെ പുതുക്കുവാൻ നമുക്ക് ഗ്ലോബൽ നിർവ്വചനം ആവശ്യമാണ് അതേസമയത്ത് ലിസ്റ്റുകളും ഡിക്ഷ്ണറികളും പോലെയുള്ള മാറ്റം വരുത്താവുന്ന വിലകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല ഒരു ഫംഗ്ഷനകത്ത് നമുക്ക് വ്യക്തമായി ഗ്ലോബൽ വിലകളെ പരാമർശിക്കുവാനും അവയെ പുതുക്കുവാനും സാധിക്കുന്നതാണ് മാത്രമല്ല ഇതാണ് നമ്മുടെ എട്ട് രാജ്ഞികളുടെ പരിഹാരത്തിൽ നമ്മൾ കണ്ടത് നമുക്ക് ബോർഡ് ഒരു ഗ്ലോബൽ മൂല്യമായി മാറ്റാൻ സാധിക്കുന്നതാണ് കൂടാതെ ഒരു ആർഗ്യുമെന്റ് പോലെ വ്യക്തമായി കൈമാറുന്നതിന് പകരം ഓരോ ഫംഗ്ഷനകത്തും അവയെ പുതുക്കുന്നത് തുടരുക അവസാനമയി നമുക്ക് ഫംഗ്ഷനുകൾക്കകത്ത് ഫംഗ്ഷനുകളാകാം എന്നാണ് നമ്മൾ കണ്ടത് പുറത്ത് അദൃശ്യമായ ഫംഗ്ഷനുകൾക്കകത്തുള്ള സഹായ ഫംഗ്ഷനുകൾ നമുക്ക് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ചെറിയ യൂണിറ്റുകളായി യുക്തിപരമായി വിഭജിച്ചുകൊണ്ട് നമുക്കവയെ ഫംഗ്ഷനുകൾക്കകത്ത് ഉപയോഗിക്കുവാൻ സാധിച്ചിട്ടുണ്ട്